ആശംസകളും മൊഡ്യൂൾ 1 യൂണിറ്റ് 9 ലേക്ക് സ്വാഗതവും ഈ യൂണിറ്റ് പഠന ടാക്സോണമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുമ്പത്തെ യൂണിറ്റ് 8 സാങ്കേതികേതര ഏഴ് പ്രോഗ്രാം ഫലങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു അവ പ്രൊഫഷണൽ കഴിവുകളെ അഭിസംബോധന ചെയ്തു ഈ ഏഴ് ഫലങ്ങൾ കൈവരിക്കുന്നതിനായി പ്രബോധന പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നടത്തുന്നതിനും ആദ്യം അവയുടെ പ്രസക്തിയിലുള്ള വിശ്വാസവും ഫാക്കൽറ്റികളുടെ ഗണ്യമായ ഗ്രൂപ്പ് പരിശ്രമവും ആവശ്യമാണ് നിങ്ങൾക്കത് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ അവ എങ്ങനെ നടത്തുന്നുവെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഏഴ് ഫലങ്ങളും നേരിട്ട് പരിഗണിക്കില്ല ഇതിന്റെ ചില പരോക്ഷ അഭിസംബോധനകളെ ഒരാൾക്ക് ന്യായീകരിക്കാൻ കഴിയും പക്ഷേ പിഒ6 മുതൽ പിഒ12 വരെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് നാം നടത്തുന്ന മൂല്യനിർണയത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്ന അർത്ഥത്തിൽ വളരെ അപൂർവ്വമായി മാത്രമേ നിർവ്വഹിക്കുന്നുള്ളൂ മൊഡ്യൂൾ 1 യൂണിറ്റ് 9 ന്റെ ഫലങ്ങൾ പ്രധാനമായും പഠന ഡൊമെയ്നുകൾ മൂന്നാണെന്നും ഞങ്ങളുടെ എല്ലാ അനുഭവങ്ങൾക്കും എല്ലാ ഡൊമെയ്നുകളിൽ നിന്നുമുള്ള ഘടകങ്ങളുണ്ടെന്നും മനസ്സിലാക്കുക ബ്ലൂമിന്റെ ടാക്സോണമി ഘടനയെക്കുറിച്ച് വിവരിക്കുക പ്രത്യേകിച്ചും ഞങ്ങൾ അവബോധനില മനസ്സിലാക്കാൻ ശ്രമിച്ചു ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി ഓർമ്മിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഈ യൂണിറ്റിൽ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്ന മൂന്ന് ഫലങ്ങൾ ഇവയാണ് ഇപ്പോൾ പഠന ഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാൻ വീണ്ടും ശ്രമിക്കും ഒരു പ്രോഗ്രാം ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ അവസാനം പഠിതാക്കൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് പഠന ഫലങ്ങൾ കോഴ്സുകളുടെ ഫലങ്ങൾ എങ്ങനെ എഴുതാം പഠന ഫലങ്ങൾ ഞങ്ങൾ പ്രസ്താവിക്കുകയും തുടർന്ന് ഈ ഫലങ്ങൾ കൈവരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നടത്തുകയും വേണം എന്നാൽ എങ്ങനെയാണ് ഞങ്ങൾ ഫലങ്ങളെ തരംതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഫലങ്ങൾ എങ്ങനെ എഴുതാം ബന്ധപ്പെട്ടവർ തമ്മിലുള്ള ആശയവിനിമയത്തിനായി ഞങ്ങൾക്ക് ഒരു രീതിശാസ്ത്രവും ചില പദങ്ങളും ആവശ്യമാണ് നിങ്ങൾ ഫലങ്ങൾ എഴുതുമ്പോൾ ആ പ്രത്യേക കോഴ്സുമായി ബന്ധപ്പെട്ട രണ്ടോ മൂന്നോ ഫാക്കൽറ്റി അംഗങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം സാധാരണയായി നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനർത്ഥം നിങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്തുമ്പോഴെല്ലാം സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പൊതു ഭാഷയുണ്ടെന്ന് സ്ഥാപിക്കേണ്ടതുണ്ട് അതിനർത്ഥം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് പദവും എല്ലാവർക്കും ഒന്നുതന്നെയാണ് എന്നാണ് തിരഞ്ഞെടുത്ത ഒരു ടാക്സോണമിയിൽ വളർച്ചയിലൂടെ പ്രവർത്തിക്കാനാകും പഠന ഫലങ്ങൾക്ക് മാത്രമല്ല വിലയിരുത്തലിനും അദ്ധ്യാപനത്തിനും ബാധകമായ അതേ ടാക്സോണമി ഉണ്ടായിരിക്കുന്നതും അഭികാമ്യമാണ് അതിനർത്ഥം ഒരു ടാക്സോണമി നൽകിയ ചട്ടക്കൂടിനുള്ളിൽ ഫലങ്ങൾ എഴുതുക വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുക ഫലങ്ങൾ കൈവരിക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് അദ്ധ്യാപനം അല്ലെങ്കിൽ നിർദ്ദേശം എന്നിങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ഞങ്ങൾക്ക് കഴിയണം ഫല പ്രസ്താവനയ്ക്ക് നന്നായി നിർവചിക്കപ്പെട്ട ഒരു ഘടന ഉണ്ടായിരിക്കണം ഫലപ്രസ്താവനയുടെ ഘടന ടാക്സോണമിയിൽ ഞങ്ങളെ പരിചയിപ്പിച്ച ശേഷം പിന്നീടുള്ള ഒരു യൂണിറ്റിൽ ഞങ്ങൾ അത് തുടരും ഇപ്പോൾ ഒരു അദ്ധ്യാപകനെന്ന നിലയിൽ മിക്കപ്പോഴും കോഴ്സ് തലത്തിൽ പഠനഫലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധാലുവാണ് നിങ്ങൾ പാഠ്യപദ്ധതി രൂപകൽപ്പന നോക്കാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഞങ്ങൾ കൂടുതൽ നോക്കുന്നത് പ്രോഗ്രാം ഫലങ്ങളെയും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളെയും കുറിച്ചാണ് എന്നാൽ കോഴ്സ് തലത്തിൽ പോലും കോഴ്സ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്റെ കോഴ്സിനെ ഞാൻ എങ്ങനെ വിവരിക്കും എന്നതാണ് ഞങ്ങളുടെ പ്രധാന വിഷയം എന്നാൽ ഈ കോഴ്സ് ഫലങ്ങൾ പ്രോഗ്രാം ഫലങ്ങളുടെയും പ്രോഗ്രാം നിർദ്ദിഷ്ട ഫലങ്ങളുടെയും ഒരു ഉപസെറ്റിനെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് അതിനാൽ ആ പരിധിവരെ കോഴ്സ് ഫലങ്ങൾ പിഒകളുമായും പിഎസ്ഒകളുമായും ബന്ധപ്പെട്ടിരിക്കണം ഇപ്പോൾ നിങ്ങൾ കോഴ്സ് ഫലങ്ങൾ എഴുതുമ്പോൾ നിർദ്ദേശവും വിലയിരുത്തലും ഒപ്പം ഇവ മൂന്നും തമ്മിലുള്ള വിന്യാസ പ്രശ്നത്തെക്കുറിച്ചും ഞങ്ങൾ ആശങ്കാകുലരാണ് കാരണം എനിക്ക് എളുപ്പത്തിൽ നിർദ്ദേശം ആസൂത്രണം ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയാത്ത രീതിയിൽ നിങ്ങൾ ഒരു കോഴ്സ് ഫലം എഴുതിയാൽ അത്തരം ഫോർമാറ്റിൽ ഒരു കോഴ്സ് ഫലം എഴുതുന്നതിൽ അർത്ഥമില്ല ഗ്രന്ഥസഞ്ചയത്തിൽ ഇപ്പോൾ നിരവധി ടാക്സോണമി ഉണ്ട് അവയിൽ പലതും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു അവയിൽ ചിലത് ബ്ലൂം സോളോ ഫിങ്ക് ഗാഗ്നെ മറാസാനോ കെൻഡാൽ മുതലായവയാണ് കൂടാതെ ഈ ടാക്സോണമികളെല്ലാം പഠന സ്വഭാവങ്ങളുടെ നിരീക്ഷണത്തെയും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പരിമിതമായ ധാരണയെയും അടിസ്ഥാനമാക്കി പഠനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയ്ക്ക് ഒരു ഘടന നൽകാൻ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും അത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പഠിക്കുന്നുവെന്നും പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ അകലെയാണ് ഒന്നാമതായി മസ്തിഷ്ക വീക്ഷണകോണിൽ നിന്ന് പഠനം എന്താണ് അർത്ഥമാക്കുന്നത് അത് വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു തലച്ചോറിനുള്ളിൽ എന്തെങ്കിലും ഘടനയുണ്ടോ മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പരിമിതമായ ധാരണയേ ഉള്ളൂ അതിനാലാണ് നിങ്ങൾ നിരവധി ടാക്സോണമികളിൽ ഒടുവിൽ എത്തിച്ചേരുന്നത് ഓരോ ടാക്സോണമി അതിനെ അല്പം വ്യത്യസ്തമായ വീക്ഷണകോണിൽ നിന്ന് നോക്കും ഇവിടെ ഞങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പുതുക്കിയ ബ്ലൂമിന്റെ ടാക്സോണമിയിലാണ് ഇപ്പോൾ ബ്ലൂമിന്റെ ടാക്സോണമിയുടെ കുറച്ച് പശ്ചാത്തലം 50 കളുടെ തുടക്കത്തിൽ ബെഞ്ചമിൻ ബ്ലൂം സവിശേഷതകളുടെ വികാസത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു അതിലൂടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ പഠന ഫലങ്ങളല്ലാതെ മറ്റൊന്നുമല്ല അവയുടെ അവബോധ സങ്കീർണ്ണതയനുസരിച്ച് ക്രമപ്പെടുത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പഠന ഫലങ്ങൾ ഉള്ളിടത്തെല്ലാം തീർച്ചയായും അവ പ്രധാനമായും സ്കൂൾ തലത്തെ സംബന്ധിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഈ പഠന ഫലങ്ങൾ ഉള്ളിടത്തെല്ലാം ഞാൻ അവയെ എങ്ങനെ തരം തിരിക്കും ഉദാഹരണത്തിന് എല്ലാ പഠന ഫലങ്ങളും ഒരേ വിഭാഗത്തിൽ വരുമോ ഉദാഹരണത്തിന് ഒരു ഫലത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നു ചില സിദ്ധാന്തങ്ങൾ പ്രസ്താവിക്കുക അല്ലെങ്കിൽ മറ്റൊരു ഫലം വിദ്യാർത്ഥിക്ക് ചില ക്ലാസ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം വ്യക്തമായും ഒരു പ്രശ്നം പരിഹരിക്കുന്നതും എന്തെങ്കിലും ഓർമ്മിക്കുന്നതും ഒരേ നിലയിലല്ല അതിനാൽ ഈ രണ്ട് വ്യത്യസ്ത പ്രവൃത്തികളെയാണ് ഞാൻ തരംതിരിക്കേണ്ടത് ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനെന്ന നിലയിൽ ആദ്യം അദ്ദേഹം പറഞ്ഞതിന് മൂന്ന് വശങ്ങളുണ്ട് അതായത് ഒരു കോഗ്നിറ്റീവ് ഡൈമൻഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡൊമെയ്ൻ ഉണ്ട് അഫക്റ്റീവ് ഡൊമെയ്ൻ അല്ലെങ്കിൽ ഒരു സൈക്കോമോട്ടോർ ഡൊമെയ്ൻ ഉണ്ട് ഇവ 1950 മുതൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി തുടങ്ങിയ വിഷയങ്ങൾ അക്കാലത്ത് മൂന്ന് ഡൊമെയ്നുകളായി അംഗീകരിച്ച മൂന്ന് സൈക്കോളജിക്കൽ ഡൊമെയ്നുകളാണ് അതിനാൽ ആദ്യം നിങ്ങൾ പറഞ്ഞ ഏതൊരു ജോലിയും മൂന്ന് മനഃശാസ്ത്ര ഡൊമെയ്നുകളിൽ ഒന്നിനെ അനുകൂലിക്കുന്നു അതിനർത്ഥം ഏത് അനുഭവവും വിജ്ഞാനപരമോ പ്രധാനമായും അവബോധനമോ ആധിപത്യം പുലർത്തുന്നതോ അല്ലെങ്കിൽ സൈക്കോമോട്ടറോ ആയിരിക്കും എന്നാൽ ഈ മൂന്ന് ഡൊമെയ്നുകളുടെ എല്ലാ ഘടകങ്ങളും ഏത് പഠന അനുഭവത്തിലും ഉണ്ടായിരിക്കും അർത്ഥവത്തായ രീതിയിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനും നിങ്ങളുടെ പ്രോസസ്സിംഗ് വിവരങ്ങളിലേക്ക് ഞങ്ങൾ റഫറൻസ് റഫറൻസുകൾ എന്ന് വിളിക്കുന്നതിനെ അല്ലെങ്കിൽ ഞങ്ങൾ ധാരണാശക്തി എന്ന് വിളിക്കുന്നതിനെ ഉപയോഗപ്പെടുത്താനുമുള്ള വ്യക്തിയുടെ കഴിവ് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ കൈകാര്യം ചെയ്യുന്നു ഇത് ഒരു അയഞ്ഞ പദമാണ് പക്ഷേ അതാണ് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ കൈകാര്യം ചെയ്യുന്നത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു പഠന പ്രക്രിയയുടെ ഫലമോ സ്വാധീനമോ ആയ മനോഭാവങ്ങളോടും വികാരങ്ങളോടും അഫക്റ്റീവ് ഡൊമെയ്ൻ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം എല്ലായ്പ്പോഴും അവയുമായി യാന്ത്രികമായി ബന്ധപ്പെട്ടിരിക്കുന്ന വികാരങ്ങൾ ഉണ്ട് നമുക്ക് ലഭിക്കുന്ന വികാരങ്ങൾ നമ്മുടെ മുമ്പത്തെ പശ്ചാത്തലത്തെ ആശ്രയിച്ചിരിക്കുന്നു മാത്രമല്ല നമ്മൾ ഒരു പ്രത്യേക പഠന അനുഭവവുമായി ക്രിയാത്മകമോ പ്രതികൂലമോ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഏതെങ്കിലും പഠന അനുഭവവുമായി അഫക്റ്റീവ് ഡൊമെയ്ൻ എല്ലായ്പ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു സൈക്കോമോട്ടർ ഡൊമെയ്നിൽ കൌശലമോ ശാരീരികമായ കഴിവുകളോ ഉൾപ്പെടുന്നു ചില പ്രവർത്തനങ്ങൾക്ക് ചില ശാരീരിക വൈദഗ്ദ്ധ്യം ആവശ്യമാണ് കൂടാതെ ചില വിഷയങ്ങളിൽ നിങ്ങൾ തിയേറ്റർ അല്ലെങ്കിൽ പെയിന്റിംഗ് സംഗീതം എന്നിവ എടുക്കുകയാണെങ്കിൽ ശാരീരിക കഴിവുകൾ ശരിക്കും പ്രബലമാണ് നിങ്ങൾ ആ പ്രവർത്തനങ്ങൾ നടത്താൻ ശാരീരിക കഴിവുകൾ നേടണം ശാരീരിക വൈദഗ്ദ്ധ്യം നേടണം ബ്ലൂമിന്റെ ടാക്സോണമി യഥാർത്ഥത്തിൽ ആരംഭിച്ചത് അവിടെ നിന്നാണ് വാസ്തവത്തിൽ ടാക്സോണമി നിർദ്ദേശിക്കപ്പെട്ടത് 1956 ലാണ് 56 ന് ശേഷം വലിയൊരു കൂട്ടം വിദ്യാഭ്യാസ വിദഗ്ധർ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ ന്യൂറോ സയന്റിസ്റ്റ് എന്നിവരാണ് യഥാർത്ഥ ബ്ലൂമിന്റെ ടാക്സോണമിയുമായി സംബന്ധപ്പെട്ടിരിക്കുന്നത് അതിനാൽ ബ്ലൂമിന്റെ ടാക്സോണമി വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായത് ആളുകൾ ചില കാര്യങ്ങളെക്കുറിച്ച് ചില എതിർപ്പുകൾ കണ്ടെത്തി 2000 ത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റി ഇരുന്ന് അനുഭവങ്ങളുടെ ഫീഡ്ബാക്ക് പരിശോധിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് കാണാൻ ശ്രമിച്ചു അതിനാൽ അവർ ആദ്യം ബ്ലൂമിന്റെ ടാക്സോണമി ചെറുതായി ലേബൽ ഉപയോഗിച്ച് പരിഷ്കരിച്ചു ഉദാഹരണത്തിന് അവബോധ നിലകളെ ചെറുതായി പുനഃക്രമീകരിച്ചു കോഗ്നിറ്റീവ് ഡൊമെയ്നിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവബോധന പഠനത്തിന് രണ്ട് മാനങ്ങളുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു അതിലൊന്നാണ് അവബോധന പ്രക്രിയ രണ്ടാമത്തേത് അറിവാണ് ചില അവബോധന ഘടകങ്ങളിൽ നിങ്ങൾ ചില അവബോധപ്രവർത്തനങ്ങൾ നടത്തുന്നു അതാണ് അവർ തിരിച്ചറിഞ്ഞത് അവർ കോഗ്നിറ്റീവ് ഡൊമെയ്നെ ദ്വിമാന ഒന്നാക്കി മാറ്റി അതായത് കോഗ്നിറ്റീവ് ലെവൽ വിജ്ഞാന വിഭാഗങ്ങൾ ഇപ്പോൾ പഠനത്തിന്റെ ഡൊമെയ്നുകൾ സംഗ്രഹിക്കാം നിങ്ങൾക്ക് അവബോധന പ്രക്രിയ വിജ്ഞാന വിഭാഗങ്ങൾ എന്നിങ്ങനെ രണ്ട് തലങ്ങളുണ്ട് നിങ്ങൾക്ക് വികാരവുമായി ബന്ധപ്പെട്ട അഫക്റ്റീവ് ഡൊമെയ്ൻ ഉണ്ട് മൂന്നാമത്തേത് സൈക്കോമോട്ടോർ ആണ് കൂടാതെ മൂന്ന് മാനങ്ങളും ഉദ്ദേശിച്ച എല്ലാ പഠന അനുഭവങ്ങളിലും പ്രവർത്തനങ്ങളിലും വ്യത്യസ്ത അളവിൽ ഉൾപ്പെടുന്നു ഒന്ന് പൂർണ്ണമായും ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു വഴിയുമില്ല ഇത് പൂർത്തിയാക്കാൻ ഒരാൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവന് ആത്മീയ ഡൊമെയ്നും ചേർക്കാൻ കഴിയും പക്ഷേ ഞങ്ങളുടെ മൊഡ്യൂളിൽ ഞങ്ങൾ ആത്മീയ ഡൊമെയ്നുമായി ഇടപെടാൻ പോകുന്നില്ല പൂർത്തീകരണത്തിനായി നമുക്ക് ആത്മീയത എന്ന ഈ മാനം ചേർക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ടാക്സോണമി ബ്ലൂമിന്റെ ടാക്സോണമി ബ്ലൂം തീർച്ചയായും അദ്ദേഹം ഇത് പുറത്തുകൊണ്ടുവന്ന ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു എന്നാൽ കഴിഞ്ഞ 60 70 വർഷമായി ഇത് ബ്ലൂമിന്റെ ടാക്സോണമി എന്ന പേരിനൊപ്പം പോകുന്നു 1956 ൽ പ്രസിദ്ധീകരിച്ച ഹാൻഡ്ബുക്ക് എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് 2001 ൽ ഈ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ ഒരു പ്രധാന പുനരവലോകനം പ്രത്യക്ഷപ്പെട്ടു ഇത് അവതരിപ്പിച്ചത് ആൻഡേഴ്സൺ ക്രാത്ത്വോൾ തുടങ്ങിയ മറ്റ് നിരവധി എഴുത്തുകാരാണ് പഠനത്തിനും അദ്ധ്യാപനത്തിനും വിലയിരുത്തലിനുമുള്ള ഒരു ടാക്സോണമി എന്നാണ് പുസ്തകത്തിന്റെ തലക്കെട്ട് നിങ്ങൾ പരിഷ്കരിച്ച അല്ലെങ്കിൽ ആൻഡേഴ്സൺ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പുസ്തകം കൈവശം വയ്ക്കാനോ ആക്സസ് ചെയ്യാനോ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിതെന്ന് ഞാൻ കരുതുന്നു ഈ പുതുക്കിയ ടാക്സോണമി ഇപ്പോൾ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി എന്നറിയപ്പെടുന്നു ഇപ്പോൾ ശരിക്കും സമന്വയിപ്പിച്ച അനുഭവങ്ങൾ നമുക്ക് നോക്കാം അവ ശരിക്കും ഒറ്റപ്പെട്ട അനുഭവമല്ല നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാം ഉണ്ട് അവബോധമുണ്ട് പ്രകടമായി അസാധാരണമായ അളവിലുള്ള ഒരു വികാരമുണ്ട് അതിൽ ഉൾപ്പെടുന്ന വികാരവും തീർച്ചയായും ശാരീരിക കഴിവുകളും ഉണ്ട് അതിനാൽ ഇവ യഥാർഥത്തിൽ സംയോജിത അനുഭവങ്ങളെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഒരാൾക്ക് പറയാൻ കഴിയും അതുപോലുള്ള ഒരു നൃത്തത്തിൽ അല്ലെങ്കിൽ ഒരു കലാകാരന് ഈ സംയോജിത അനുഭവങ്ങൾ ഉണ്ടാകും ഒരാൾക്ക് പ്രധാനമായും അവബോധം കാണാനാകും അതിനർത്ഥം നിങ്ങൾ എങ്ങനെയെങ്കിലും മറ്റ് രണ്ടെണ്ണത്തിൽ കുറച്ചു കുറവായി ശ്രദ്ധ ചെലുത്തുന്നു പക്ഷേ ഇവ പ്രധാനമായും അവബോധാനുഭവങ്ങളെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾക്ക് ഇത് പ്രധാനമായും അഫക്റ്റീവായി കണക്കാക്കാം ഈ ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പ്രധാന കാര്യം പരസ്പരം വികാരവും വാത്സല്യവും പ്രകടിപ്പിക്കുക എന്നതാണ് അപ്പോൾ ഇത് പ്രധാനമായും സൈക്കോമോട്ടറാണ് ഇവിടെ നിങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള കഴിവുകൾ ആവശ്യമാണെങ്കിലും നിങ്ങൾക്ക് പറയാൻ കഴിയും ഇതിന് അവബോധമാനങ്ങളൊന്നുമില്ലെന്ന് പറയാൻ കഴിയില്ല കൃത്യമായി ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നത് ഒരു അവബോധ തീരുമാനമാണ് എന്നാൽ നിങ്ങൾക്ക് തീവ്രമായ സൈക്കോമോട്ടോർ കഴിവുകൾ ആവശ്യമുള്ള ഈ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നതാണ് ആധിപത്യം ചില സമയങ്ങളിൽ നിങ്ങൾ ഒരു നിശ്ചിത അനുഭവത്തിൽ പരിമിതമായ കാലയളവിൽ വിവിധ അനുഭവങ്ങളിലൂടെ കടന്നുപോകും ഉദാഹരണത്തിന് 90 മിനിറ്റ് പരീക്ഷയിൽ ആദ്യത്തെ 85 മിനിറ്റിൽ നിങ്ങൾ പ്രധാനമായും അവബോധമുള്ളവരാണ് എന്നാൽ അവസാന 5 മിനിറ്റ് നിങ്ങൾ തികച്ചും വികാരാധീനരാകുകയും നിങ്ങൾ നേരത്തെ ചെയ്തതിൽ സന്തോഷമില്ലെങ്കിൽ കുറച്ച് അഫക്റ്റീവ് ഡൊമെയ്നിലേക്ക് പോകുകയും ചെയ്യുന്നു ശരി അതിനാൽ നിങ്ങൾക്ക് ഡൊമെയ്നുകളിലും മാറ്റം വരുത്താം ഇപ്പോൾ ആൻഡേഴ്സൺ ബ്ലൂം നിർദ്ദേശിച്ച അവബോധന പ്രക്രിയകൾ ഓർമ്മിക്കുക മനസിലാക്കുക പ്രയോഗിക്കുക വിശകലനം ചെയ്യുക വിലയിരുത്തുക സൃഷ്ടിക്കുക എന്നിവയാണ് ഇവ പ്രായോഗികമായി നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ നിങ്ങൾക്ക് പ്രവർത്തന ക്രിയകൾ പറയാം അവർ പ്രവർത്തനത്തിന്റെ പ്രതിനിധികളാണ് കാരണം അതാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കാരണം ഫലം ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത് ഫലം എന്നാൽ വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഇവിടെ അവൻ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുന്നു മനസിലാക്കുന്നു പ്രയോഗിക്കുന്നു വിശകലനം ചെയ്യുന്നു വിലയിരുത്തുന്നു സൃഷ്ടിക്കുന്നു ഇതാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനാൽ ഇവ ശരിക്കും പ്രവർത്തന ക്രിയകളെ പ്രതിനിധീകരിക്കുന്നു ചിലതരം ശ്രേണികളുണ്ടെന്നും അംഗീകരിക്കപ്പെടുന്നു ശ്രേണിയിൽ അർത്ഥം മനസിലാക്കുന്ന പ്രവർത്തനത്തിൽ ഓർമ്മപ്പെടുത്തൽ ഉൾപ്പെടുന്നു ഓർമ്മപ്പെടുത്തൽ ഉൾപ്പെടാം പ്രയോഗിക്കുക എന്ന പ്രവർത്തനത്തിൽ മനസിലാക്കുക ഓർമ്മിക്കുക ഇവ രണ്ടും ഉൾക്കൊള്ളും അതുപോലെ വിശകലനം ചെയ്യുന്നതിൽ പ്രയോഗിക്കുക മനസിലാക്കുക ഓർമ്മിക്കുക എന്നിവ ഉൾക്കൊള്ളുന്നു ഏറ്റവും ഉയർന്ന സൃഷ്ടിക്കുക എന്നത് മറ്റ് 5 പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു അതിനാൽ ഒരു തരം ശ്രേണി ഉൾപ്പെടുന്നു ശ്രേണി എന്നത് ഉയർന്ന ബുദ്ധിമുട്ടുള്ള നിലകളല്ല പിന്നീടുള്ള ഘട്ടത്തിൽ ഞങ്ങൾ അതിലേക്ക് വരും എങ്ങനെയോ ഈ വിഷയസംബന്ധിയായ രചനകളിൽ ഉയർന്ന തലത്തിലുള്ള പ്രവർത്തനം യാന്ത്രികമായി കൂടുതൽ ബുദ്ധിമുട്ടായി കണക്കാക്കപ്പെടുന്നു അത് ശരിയല്ല ശരി ഓർക്കുക എന്നതാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പ്രവർത്തനം എന്ന് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ഓർമിക്കുന്നത് ദീർഘകാല മെമ്മറിയിൽ നിന്ന് പ്രസക്തമായ അറിവ് വീണ്ടെടുക്കുകയാണോ അതായത് നിങ്ങൾ എന്തെങ്കിലും ഓർമ്മിച്ചു അല്ലെങ്കിൽ നിങ്ങൾ മെമ്മറിയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം അത് ഓർമ്മിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾക്ക് ഓരോ തവണയും 2 2 4 എന്ന് പറയാൻ കഴിയില്ല ഉത്തരം വരേണ്ടത് ദീർഘകാല മെമ്മറിയിൽ നിന്നാണ് ഇത് ഒരു ഗണിതശാസ്ത്ര പ്രശ്നമായി പരിഹരിക്കാൻ ശ്രമിക്കരുത് 2 ഉം 2 ഉം എന്താണ് ഗുണനത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് 2 കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഞങ്ങൾ ആ യുക്തിയിലൂടെ കടന്നുപോകുന്നില്ല അതിനാൽ ഏതൊരാൾക്കും പ്രവർത്തിക്കാൻ പരിശ്രമത്തിന്റെ ഏത് മേഖലയിലും വേണ്ടത്ര നിങ്ങൾ ധാരാളം വിവരങ്ങൾ സംഭരിക്കേണ്ടതുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് വീണ്ടെടുക്കാൻ കഴിയുകയും വേണം ജലത്തിന്റെ സാന്ദ്രത എന്താണ് എന്നതുപോലുള്ള പ്രസക്തമായ അറിവ് വസ്തുതാപരമായിരിക്കാം നിങ്ങൾക്ക് പോയി ഒരു ഹാൻഡ്ബുക്ക് പരിശോധിക്കാൻ താൽപ്പര്യമില്ല അതൊരു വസ്തുതാപരമായ വിവരമാണ് കൂടാതെ എന്താണ് ഘനം എന്നതു പോലുള്ള ആശയപരമായ വിവരങ്ങൾ ആശയപരമായ അറിവ് ഉണ്ടായിരിക്കണം ഞാൻ തുടർന്നും പുസ്തകം നോക്കാൻ പോകുന്നില്ല അത്തരത്തിലുള്ള ഒരു ആശയം ഞാൻ അറിയണം പിന്നെ നടപടിക്രമ പരിജ്ഞാനം അങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കുന്നത് നിങ്ങൾ എങ്ങനെ ഗുണിക്കും എങ്ങനെ ചേർക്കുന്നു ഇവ നടപടിക്രമ പരിജ്ഞാനമാണ് അത് ഓർമ്മിക്കേണ്ടതാണ് ഇത് ഇവയിലേതിന്റെയെങ്കിലും സംയോജനമാകാം അതിനാൽ അർത്ഥവത്തായ പഠനത്തിനും പ്രശ്ന പരിഹാരത്തിനും അറിവ് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ധാരാളം വിവരങ്ങൾ ലോഡു ചെയ്യുന്നത് തുടരേണ്ടതുണ്ട് പക്ഷേ അത് അവിടെ നിർത്താൻ കഴിയില്ല അതിനാൽ ഇത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള പ്രവർത്തനമാണ് മാത്രമല്ല ഞങ്ങൾ പലതും ഓർമ്മിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഓർമ്മിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ക്രിയയെ ഞാൻ എങ്ങനെ ബന്ധപ്പെടുത്തും അതിനാൽ ഒരു ഓർമ്മപ്പെടുത്തൽ പ്രവർത്തനത്തെ സൂചിപ്പിക്കുക തിരിച്ചറിയുക തിരിച്ചുവിളിക്കുക പട്ടികപ്പെടുത്തുക പറയുക സ്ഥാനം കണ്ടെത്തുക എഴുതുക കണ്ടെത്തുക പരാമർശിക്കുക പ്രസ്താവിക്കുക വരക്കുക അടയാളപ്പെടുത്തുക നിർവചിക്കുക പേര് വിവരിക്കുക അല്ലെങ്കിൽ ഒരു സിദ്ധാന്തം തെളിയിക്കുക തുടങ്ങിയ ക്രിയകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രവർത്തന ക്രിയകൾ ഇവയാണ് നിങ്ങളുടെ അനുഭവത്തെ അടിസ്ഥാനമാക്കി കുറച്ച് കൂടി അനുസരിച്ച് ചേർക്കാൻ ഒരാൾ ആഗ്രഹിച്ചേക്കാം എന്നാൽ പ്രധാന കാര്യം നിങ്ങൾ മെമ്മറിയിൽ എന്തെങ്കിലും സംഭരിച്ചുവെന്നതാണ് കൂടാതെ ഒരു ദീർഘകാല മെമ്മറിയിൽ നിന്ന് നിങ്ങളുടെ ഇന്നത്തെ ബോധപൂർവമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉൾപ്പെടുന്ന ഒരു പ്രവർത്തനം നിങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനാൽ ഓർമ്മിക്കുന്നതിൽ ഉൾപ്പെടുന്ന പ്രവർത്തനം അതാണ് ഇപ്പോൾ മൂല്യനിർണ്ണയത്തിൽ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രശ്ന പ്രസ്താവന പറയാൻ ഞങ്ങളെ അനുവദിക്കുന്ന രൂപത്തിൽ ഞങ്ങൾ പ്രസ്താവിക്കുന്ന ചില സാമ്പിൾ പ്രവർത്തനങ്ങൾ ഒരു ട്രാൻസ്ഫോർമറിന്റെ പരമാവധി കാര്യക്ഷമതയ്ക്കായുള്ള അവസ്ഥ പ്രസ്താവിക്കുകയും തെളിയിക്കുകയും ചെയ്യുക ശരി ഒന്ന് പ്രസ്താവിക്കുന്നു രണ്ടാമത്തേത് തെളിയിക്കുന്നു പരമാവധി കാര്യക്ഷമത കണക്കാക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമുണ്ടെന്ന് പരമാവധി കാര്യക്ഷമതയ്ക്കായി വ്യവസ്ഥ തെളിയിക്കുന്നു നിങ്ങൾ അത് തെളിയിക്കേണ്ടതുണ്ട് തെളിവ് ഇതിനകം വിദ്യാർത്ഥിക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കണക്കാക്കുന്നില്ല അത് ഓർക്കുക നിങ്ങൾ കാര്യക്ഷമത കണക്കാക്കുന്നില്ല പരമാവധി കാര്യക്ഷമതയ്ക്കായി നിങ്ങൾ വ്യവസ്ഥ തെളിയിക്കുകയാണ് രണ്ടും നേരത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചു നിങ്ങൾ അവ ഓർമ്മിക്കുകയും എഴുതുകയും വേണം അതിനാൽ ഈ ഉദാഹരണങ്ങളെല്ലാം ഒന്നുതന്നെയാണ് സമാനമാണ് ഒരു പവർ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക് ജനറേഷൻ നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്താണ് പ്രാധാന്യം അതാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത് നിങ്ങൾ പ്രാധാന്യം പ്രസ്താവിക്കുക മാത്രമാണ് ചെയ്യുന്നത് മുമ്പ് ഇത് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നു വഴക്കമുള്ള നടപ്പാതകളുടെ പരാജയവും പരിഹാര നടപടികളും വിവരിക്കുക കുറഞ്ഞ ചിലവിൽ നഷ്ടപ്പെട്ട വൈദ്യുതി ഒരു തുറന്ന സിസ്റ്റത്തിലെ ദ്രാവക പ്രവാഹത്തിലെ എൻട്രോപ്പി ജനറേഷൻ നിരക്കിന് ആനുപാതികമാണെന്ന് തെളിയിക്കുക ഇത് വളരെ സങ്കീർണ്ണവും അഗാധവുമാണെന്ന് തോന്നാമെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് നഷ്ടപ്പെട്ട വൈദ്യുതിശക്തി എൻട്രോപ്പിക്ക് ആനുപാതികമാണെന്ന് തെളിയിക്കുകയാണ് കോൺക്രീറ്റ് ഘടനകളുടെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തന സമ്മർദ്ദ രീതിയുടെയും ലിമിറ്റഡ് സ്റ്റേറ്റ് രീതിയുടെയും അനുമാനങ്ങൾ പ്രസ്താവിക്കുക നിങ്ങൾ അനുമാനങ്ങൾ പ്രസ്താവിക്കുകയാണ് അനുയോജ്യമായ ടെസ്റ്റ് സാഹചര്യങ്ങളിലും ലബോറട്ടറി ടെസ്റ്റ് സാഹചര്യങ്ങളിലും കംപ്രഷനിൽ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവുകൾ വരയ്ക്കുക ഇതും നിങ്ങൾ വരയ്ക്കുന്നു ഇത് ഇതിനകം നിങ്ങൾക്ക് കാണിച്ചുതന്നിട്ടുണ്ട് നിങ്ങൾ വളവുകൾ പുനർനിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ ഓർമിക്കുന്നതിനുള്ള സാമ്പിൾ പ്രവർത്തനങ്ങൾ ഇവയാണ് കൂടാതെ ഈ STEMS ഉപയോഗിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ സൃഷ്ടിക്കാനും കഴിയും അതിനുശേഷം എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് പൂരിപ്പിക്കാനാകും വീണ്ടും ആരാണ് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് പേര് നൽകാമോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കുക ആരോടാണ് സംസാരിച്ചത് എന്താണ് ഇതിന്റെ അർത്ഥം അതിനാൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക യൂണിറ്റിനായി ഏതെങ്കിലും മൂല്യനിർണ്ണയ ഇനങ്ങൾ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഠന യൂണിറ്റ് നിങ്ങളുടെ മൂല്യനിർണ്ണയ ഇനങ്ങൾ എഴുതുന്നതിനുള്ള ആരംഭ പോയിന്റ് എന്ന് വിളിക്കുന്ന ഇവ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ മുഖ്യമായ മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഓർമ്മിക്കുന്നതിനെക്കാൾ സങ്കീർണ്ണമായതിലേക്ക് വരിക മനസ്സിലാക്കുക പഴയ ടാക്സോണമിയിൽ നിന്നോ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ നിന്നോ നോക്കുമ്പോൾ ആദ്യത്തെ ടാക്സോണമിയിൽ മനസ്സിലാക്കുക എന്ന വാക്കിന് ഏതാണ്ട് അവഹേളനപരമായ അർത്ഥമുണ്ട് അതിനാൽ യഥാർത്ഥ ബ്ലൂമിന്റെ ടാക്സോണമിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ വാക്ക് ഇഷ്ടമല്ല അവർ ഉപയോഗിക്കുന്ന പദം ഗ്രഹിക്കുക എന്നതാണ് എന്നാൽ ലോകമെമ്പാടുമുള്ള ധാരാളം ഫീഡ് ബാക്കുകൾക്ക് ശേഷം ഗ്രൂപ്പ് അവർ മനസ്സിലാക്കുക എന്ന വാക്കിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പ്രബോധന സന്ദേശങ്ങളിൽ നിന്ന് അർത്ഥം നിർമ്മിക്കുക എന്നതാണ് മനസ്സിലാക്കൽ നിർദ്ദേശ സന്ദേശങ്ങൾ വാക്കാലുള്ളതാകാം അത് ആരോ സംസാരിക്കുന്നു അല്ലെങ്കിൽ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രപരമോ ഗ്രാഫിക് അല്ലെങ്കിൽ പ്രതീകാത്മകമോ ആകാം പ്രഭാഷണങ്ങളിലെ പ്രകടനങ്ങൾ ഫീൽഡ് ട്രിപ്പുകൾ പ്രകടനങ്ങൾ അല്ലെങ്കിൽ സിമുലേഷനുകൾ എന്നിവയിലൂടെ പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിൽ നിർദ്ദേശ സന്ദേശങ്ങൾ ലഭിക്കും അതിനാൽ ഈ ഉറവിടങ്ങളിൽ നിന്ന് നിർദ്ദേശ സന്ദേശങ്ങൾ വരാം ഈ സന്ദേശങ്ങളിൽ നിന്ന് എനിക്ക് അർത്ഥം നിർമ്മിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ വാക്കാലുള്ള എന്തെങ്കിലും കേൾക്കുന്നു ഒരുപക്ഷേ നിങ്ങൾ ഒരു മോണിറ്ററിലോ സെൽഫോണിലോ കാണുന്നുണ്ടാകാം മാത്രമല്ല ആ നിർദ്ദേശ സന്ദേശങ്ങളിൽ നിന്ന് നിങ്ങൾ അർത്ഥം നിർമ്മിക്കുകയും വേണം അതാണ് മനസ്സിലാക്കൽ ഇപ്പോൾ മനസ്സിലാക്കുന്നതിൽ ധാരാളം സബ് പ്രോസസുകൾ ഉൾപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെ ഏഴെണ്ണം പട്ടികപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇതിലൂടെ വേഗത്തിൽ പോകാം വ്യാഖ്യാനിക്കുക വ്യാഖ്യാനം എന്നാൽ നിങ്ങളുടെ സ്വന്തം വാക്കുകളിലേക്ക് വിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ പരാഫ്രേസിംഗ് അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കുക ഉദാഹരണത്തിന് എന്തെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു അതിൽ എന്താണ് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിലോ പാരാഫ്രേസിലോ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ വിവർത്തനം ചെയ്യുക ഇവ വ്യാഖ്യാനമാണ് അതിനെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിച്ചതിൽ നിന്ന് ഒരു സന്ദേശം നിർമ്മിക്കുക എന്ന് മുമ്പ് വിളിച്ചത് ഇപ്പോൾ അടുത്തത് ഉദാഹരണമാണ് അതിനർത്ഥം നിങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും അവതരിപ്പിച്ചു എന്നാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നു ചില സിദ്ധാന്തം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾ ഒരു ചിത്രീകരണം ഒരു ചിത്രം നൽകുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ശക്തമായ ഉദാഹരണത്തോട് കൂടി പ്രധിനിധാനം ചെയ്യുക ഒരു ഉദാഹരണം നൽകുക ശരി ഉദാഹരിക്കുക ഒരു ഉദാഹരണം നൽകുകയല്ലാതെ മറ്റൊന്നുമല്ല വർഗ്ഗീകരിക്കുക വർഗ്ഗീകരണം എന്നത് ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് തരംതിരിക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ തരം തിരിക്കും സംഗഹിക്കുക സംഗ്രഹം സാമാന്യവൽക്കരണം അല്ലെങ്കിൽ അമൂർത്തീകരണം പോലെയാണ് ചിലത് വിശാലമോ സങ്കീർണ്ണമോ ആയിരിക്കാം വാക്കാലുള്ള വിവരണം ഒരു ഗണിതശാസ്ത്ര രൂപത്തിലേക്ക് പറയാൻ അനുവദിക്കുക അതായത് അമൂർത്ത രൂപം അത് സംഗ്രഹിക്കാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾ എന്തെങ്കിലും അനുമാനിക്കുന്നു നിങ്ങൾ അവതരിപ്പിച്ചതെന്തിലും നിങ്ങൾ ഒരു പാറ്റേൺ കണ്ടെത്തുന്നു ഘടകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചതോ ബന്ധപ്പെട്ടതോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ താരതമ്യം ചെയ്യുകയാണെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു കോൺട്രാസ്റ്റ് മാച്ച് മാപ്പ് നിങ്ങൾ രണ്ട് വ്യത്യസ്ത അവബോധന ഘടകങ്ങളെ താരതമ്യം ചെയ്യുന്നു തുടർന്ന് ഉദ്ദേശ്യം താരതമ്യം ചെയ്യുക മാത്രമാണ് എ ബി എന്നിവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ് അല്ലെങ്കിൽ എ യിൽ നിന്ന് ബി എങ്ങനെ വ്യത്യസ്തമാണ് അതിനാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ തരം അതാണ് ചിലപ്പോൾ നിങ്ങൾ വിശദീകരിക്കും ഉദാഹരണത്തിന് ഞങ്ങളുടെ ടെസ്റ്റുകളിലും പരീക്ഷകളിലും അത്തരം നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ കാണുന്നു ഒരു മാതൃക നിർമ്മിക്കുക ഇത് ഒരു വാക്കാലുള്ള മാതൃകയോ ഗണിതശാസ്ത്ര മാതൃകയോ ആകാം ഏതുവിധേനയും നിങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കുന്നു അതിനാൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന ഏഴ് ഉപ പ്രക്രിയകളാണ് ഇവ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില സാമ്പിൾ പ്രവർത്തനങ്ങൾ ഒരു ഡിസി മെഷീൻ ഫ്ലക്സ് ഡിഇ മെഷീൻ ഫ്ലക്സ് ഓരോ ധ്രുവത്തിലും ലോഡ് കൂടുന്നതിനനുസരിച്ച് കുറയുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുക മെമ്മറി മാപ്പ് ചെയ്ത ഐ ഒ പെരിഫറൽ മാപ്പ്ഡ് ഐ ഒ ടെക്നിക്കുകൾ എന്നിവ താരതമ്യം ചെയ്യുക വെർച്വൽ ബേസ് ക്ലാസിന്റെ ഉപയോഗം വിശദീകരിക്കുക കൂടാതെ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ എഴുതുന്നത് പോലെ നിങ്ങൾക്ക് കാണാനാകുന്ന സാമ്പിൾ ചോദ്യങ്ങളും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു STEM ആണ് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരു ഹ്രസ്വ രൂപരേഖ എഴുതുക അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു നീ എന്ത് ചിന്തിക്കുന്നു പ്രധാന ആശയം എന്തായിരുന്നു ആരാണ് പ്രധാന കഥാപാത്രം തന്നിരിക്കുന്ന നാടകത്തിലോ സാഹിത്യ ഭാഗത്തിലോ നമുക്ക് പറയാം തമ്മിൽ വേർ തിരിച്ചറിയുക തമ്മിൽ എന്ത് വ്യത്യാസങ്ങൾ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതിന് ഒരു ഉദാഹരണം നൽകുക അതിനാൽ നിങ്ങളുടെ മൂല്യനിർണ്ണയത്തിലെ ധാരണയെ പ്രതിനിധീകരിക്കുന്ന ചോദ്യങ്ങൾ എഴുതുന്നതിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില STEMS ഇവയാണ് ഇപ്പോൾ നിങ്ങൾ അസൈൻമെന്റുകളായി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പഠിപ്പിച്ചതോ പഠിച്ചതോ ആയ കോഴ്സിൽ നിന്നുള്ള രണ്ട് ഉദാഹരണങ്ങൾ ഓർമ്മിക്കുക മനസിലാക്കുക എന്ന അവബോധതലങ്ങളിൽ ഉൾപ്പെടുന്നു നിങ്ങൾ രണ്ട് ഉദാഹരണങ്ങൾ നൽകേണ്ടതുണ്ട് എന്നാൽ അവർ തീർച്ചയായും ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടണം ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി അദ്വിതീയമല്ലെന്നും മറ്റ് ടാക്സോണമികളും ചില ആളുകൾ പിന്തുടരുന്നുവെന്നും പറയാനുള്ള ഒരു അഭ്യാസമാണ് എന്നാൽ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ ചോയിസിലെ മറ്റൊരു ടാക്സോണമിയുമായി താരതമ്യപ്പെടുത്തുന്നത് വിലമതിക്കുന്നു അവ എത്രത്തോളം സമാനമാണ് അല്ലെങ്കിൽ അവ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതിനുശേഷം ഞങ്ങൾ യൂണിറ്റ് 10 ലേക്ക് പോകുന്നു പ്രധാനമായും യൂണിറ്റ് 10 അവശേഷിക്കുന്ന നാല് അവബോധ തലങ്ങൾ മനസിലാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും പ്രയോഗിക്കുക വിശകലനം ചെയ്യുക വിലയിരുത്തുക ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി സൃഷ്ടിക്കുക അതാണ് ഇതിന്റെ ലക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി